ഇന്ന് നമ്മൾ ഒരു ക്ലൌഡ് കമ്പ്യൂട്ടിംഗിന്റെ പ്രധാന വശങ്ങളിലൊന്ന് അല്ലെങ്കിൽ ക്ലൌഡ് അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂട്ട് സിസ്റ്റം അല്ലെങ്കിൽ റിസോഴ്സ് മാനേജ്മെന്റിന്റെ നമ്മൾ ചിന്തിക്കുന്നു അതോടൊപ്പം നമ്മൾ അടിസ്ഥാനപരമായി ഒന്നിലധികം ഉപയോക്താക്കൾക്ക് ഈ റിസോഴ്സുകൾ പ്രയോജനപ്പെടുത്തുന്നു ഉപഭോക്തൃ കാഴ്ചപ്പാടിൽ നിന്നോ സേവന ദാതാവിന്റെ കാഴ്ചപ്പാടിൽ നിന്നോ ഇത് ഒരു അളക്കാവുന്ന സേവനമാണെന്നും ഒരു ഉപഭോക്താവിന് നിങ്ങൾ പോകുമ്പോഴോ അല്ലെങ്കിൽ മീറ്റർ ചെയ്ത സേവനങ്ങളെന്നോ ശമ്പള സങ്കൽപ്പത്തെ അടിസ്ഥാനമാക്കി റിസോഴ്സുകൾ നേടാനാകും ദാതാവിന്റെ അവസാനം മുതൽ ഉപഭോക്താവിനെ മികച്ച രീതിയിലും മറ്റ് അർത്ഥത്തിലും സേവിക്കാൻ കഴിയുന്ന രണ്ട് പദങ്ങളിലും റിസോഴ്സ് ശരിയായി വിനിയോഗിക്കേണ്ടത് പ്രധാനമാണ് അത് പരിമിതമാണ് അല്ലെങ്കിൽ പരിമിതമായ അളവിലുള്ള റിസോഴ്സ് ആണെന്നാണ് നമ്മൾ പറയുന്നത് ഇതിന് ഉപഭോക്താവിനോ ദാതാവിനോ കഴിയുന്നത്ര ആളുകളെ സേവിക്കാൻ കഴിയും ദാതാക്കളിൽ നിന്ന് ഒരു ബിസിനസ് ആംഗിൾ ഉണ്ട് സേവനങ്ങളുടെ ഗുണനിലവാരത്തിലോ എസ്എൽഎ ലംഘനങ്ങളിലോ വിട്ടുവീഴ്ച ചെയ്യാതെ അയാൾക്ക് ലാഭം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് നമ്മൾ കണ്ടതുപോലെ SLA യുടെ ലംഘനമുണ്ടെങ്കിൽ ഇതിന് ഒരു നീണ്ട സൂചനയുണ്ട് പിഴയും മറ്റും നൽകേണ്ടതുണ്ട് മുഴുവൻ കാര്യങ്ങളുടെയും മറ്റൊരു വശമുണ്ട് ഒരു പ്രത്യേക ദാതാവ് പണം പറയുകയോ ധാരാളം റിസോഴ്സ് താങ്ങാൻ കഴിയുകയോ ചെയ്യുന്നുണ്ടെങ്കിലും ഒരു പരിമിതി ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ മൊത്തത്തിലുള്ള പാരിസ്ഥിതിക വശങ്ങളുണ്ട് നിങ്ങളുടെ കാർബൺ കാൽപ്പാടുകൾ എത്രയാണ് നിങ്ങൾക്ക് എത്ര ഊർജ്ജ വിഭവമുണ്ട് ഒരു നിയന്ത്രണമുണ്ട് അല്ലെങ്കിൽ ഒരു ബാധ്യതയുണ്ട് ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വച്ചുകൊണ്ട് ഈ റിസോഴ്സ് മാനേജ്മെന്റ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു നമ്മൾ പ്രഭാഷണങ്ങളിൽ എന്തുചെയ്യും ക്ലൌഡ്ഡ് കമ്പ്യൂട്ടിംഗിന്റെ പശ്ചാത്തലത്തിൽ ഒരു റിസോഴ്സ് മാനേജ്മെന്റിന്റെ വ്യത്യസ്ത വശങ്ങൾ എന്താണെന്ന് നമ്മൾ പരിശോധിക്കും ഒരു സാധാരണ ക്ലൌഡ്ഡ് കമ്പ്യൂട്ടിംഗ് കാര്യങ്ങളിൽ വ്യത്യസ്ത തരം റിസോഴ്സ് പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ നമുക്കുള്ളത് നോക്കാം നമ്മൾക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട് അടിസ്ഥാന ഇൻഫ്രാസ്ട്രക്ചർ അവിടെ ഒരു കമ്പ്യൂട്ട് റിസോഴ്സ് സ്റ്റോറേജ് റിസോഴ്സ് നെറ്റ്വർക്കിംഗ് റിസോഴ്സ് അല്ലെങ്കിൽ അനുബന്ധ റിസോഴ്സ് ഇൻഫ്രാസ്ട്രക്ചറിന് മുകളിലുള്ള ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് അല്ലെങ്കിൽ ഇവിടെ ഒരു സേവനമെന്ന നിലയിൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രധാന കാര്യമാണെന്ന് പറഞ്ഞാൽ ഒരു സേവനമായി നമ്മൾക്ക് ഒരു പ്ലാറ്റ്ഫോം ഉണ്ട് അവസാനം നമ്മൾക്ക് റിസോഴ്സായി ആപ്ലിക്കേഷൻ ഉണ്ട് റിസോഴ്സ്സിനു മറ്റൊരു രീതിയിൽ പ്രകടമാകാൻ കഴിയും അത് ഇൻഫ്രാസ്ട്രക്ചർ ആകാം പ്രാഥമികമായി നമ്മൾ റിസോഴ്സിനെക്കുറിച്ചോ റിസോഴ്സ് മാനേജ്മെന്റിനെക്കുറിച്ചോ സംസാരിക്കുമെങ്കിലും നമ്മൾ സാധാരണയായി ഒരു സേവനമെന്ന നിലയിൽ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് മടങ്ങും പക്ഷേ ക്ലൌഡ്ഡിന്റെ മൊത്തത്തിലുള്ള പരിഗണിക്കുമ്പോൾ അടിസ്ഥാനപരമായി കുറഞ്ഞത് ഒരു സേവനമെന്ന നിലയിൽ ഇൻഫ്രാസ്ട്രക്ചർ ഒരു സേവനമെന്ന നിലയിൽ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ഒരു സേവനമായി സോഫ്റ്റ്വെയർ കൂടാതെ നമ്മൾക്ക് ഒരു റിസോഴ്സ് മാനേജ്മെന്റ് കാര്യമായി അ ആപ്ലിക്കേഷനായും പ്ലാറ്റ്ഫോം ഉണ്ട് എന്നാൽ പ്രധാനമായും ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഒരു വലിയ പങ്ക് വഹിക്കുന്നു ഇവ വ്യത്യസ്ത തരം റിസോഴ്സ്കൾ ആണ് കൂടാതെ ഉപഭോക്താവ് അടിസ്ഥാനപരമായി വ്യത്യസ്ത തരം വൈവിധ്യമാർന്ന സംവിധാനങ്ങളുള്ള ക്ലൌഡിലേക്ക് ഒഴുക്കുന്നു ഇത് സെർവറുകളാകാം അത് ലാപ്ടോപ്പുകളാകാം ഒരുപക്ഷേ ഒരു സ്മാർട്ട് ഫോണുകൾ ടാബ്ലെറ്റുകൾ ഡെസ്ക്ടോപ്പ് തുടങ്ങിയവ കേസുകളുടെ എണ്ണം ഒരു ക്ലൌഡിനോ സേവനത്തിനോ ക്ലൌഡ് സേവനത്തെയോ സേവന ദാതാക്കളെയോ മറ്റ് കാര്യങ്ങളിൽ സ്വാധീനിക്കാൻ കഴിയുമെന്ന് നമ്മൾക്ക് പറയാൻ കഴിയും ഒരു സേവന ദാതാവിൽ നിന്ന് ചില സേവനങ്ങൾ എടുത്ത് ഞാൻ സേവനം നൽകുന്നു മൊത്തത്തിൽ ഈ മാനേജ്മെന്റും മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഒപ്റ്റിമൈസേഷനും വളരെ ശ്രമകരമായ ഒന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ ശ്രമിക്കുന്നത് അതാണ് കാര്യങ്ങളുടെ വ്യത്യസ്ത വശങ്ങൾ എന്തൊക്കെയാണ് ഒരേ തരത്തിലുള്ള ഹാർഡ്വെയർ ഉപയോഗിച്ച് മറ്റൊരു കാര്യങ്ങൾ ലഭ്യമാണെങ്കിലും റിസോഴ്സ് കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാൻ കഴിയുമോ ഈ പ്രത്യേക റിസോഴ്സ് മാനേജ്മെന്റിനായുള്ള നമ്മളുടെ അടിസ്ഥാന കോൾ അതാണ് കമ്പ്യൂട്ടർ ഡിസ്ക് മെമ്മറി ഡാറ്റാബേസുകൾ നെറ്റ്വർക്ക് ശാസ്ത്രീയ ഉപകരണം എന്നിവ കാണുന്നതുപോലെ റിസോഴ്സ് ഭൌതിക വിഭവങ്ങളാകാം ഡാറ്റാബേസ് വീണ്ടും ഒരു സോഫ്റ്റ് റിസോഴ്സാണ് ഇത് സംയോജിപ്പിച്ചതായി നമ്മൾ പറയുന്നത് ഹാർഡ്വെയർ സിസ്റ്റങ്ങൾ ഡാറ്റാബേസുകൾക്കും വേണ്ടിയുള്ളതാണ് നമ്മൾ പറയുന്നത് പോലുള്ള മറ്റ് യുക്തിസഹമായ റിസോഴ്സ് ഉണ്ട് ആശയവിനിമയ ആപ്ലിക്കേഷനുകൾ മറ്റ് ആപ്ലിക്കേഷനുകൾ എന്നിവ പോലുള്ള ആപ്ലിക്കേഷനുകൾ ഉണ്ട് സിപിയുവിൽ പ്രവർത്തിക്കുന്ന ചില പ്രോസസ്സുകളുടെ എക്സിക്യൂഷനുകൾ കാര്യങ്ങളുടെ നിരീക്ഷണവും മാനേജ്മെന്റും ഇവ മോണിറ്ററിംഗ് ടൂളുകൾ മാനേജുമെന്റ് ടൂളുകൾ തുടങ്ങിയവയാണ് ഇവ മറ്റ് റിസോഴ്സ് ആണ് ചില റിസോഴ്സ് നേരിട്ട് ഉപയോഗപ്പെടുത്തുന്നു സിപിയുവും ഹാർഡ് ഡിസ്കും മറ്റ് കാര്യങ്ങളും ഞാൻ പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്നതുപോലെ ചിലത് അടിസ്ഥാനപരമായി ആ റിസോഴ്സ് കൈകാര്യം ചെയ്യുന്നതിനാണ് ഇതുപോലുള്ള വിശാലമായ പദത്തിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ എന്താണ് ശ്രമിക്കുന്നത് അല്ലെങ്കിൽ റിസോഴ്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു റിസോഴ്സ് മാനേജ്മെൻറുമായി നമ്മൾ എന്തുചെയ്യാൻ ആഗ്രഹിക്കുന്നു റിസോഴ്സ് മാനേജ്മെന്റ് എന്ന പദം ക്ലൌഡ് റിസോഴ്സുകളും സേവനങ്ങളും നൽകുന്ന കഴിവുകൾ എങ്ങനെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കുന്നു ഉപയോക്താക്കൾ ആപ്ലിക്കേഷനുകൾ സേവനങ്ങൾ എന്നിവ കാര്യക്ഷമമായ രീതിയിൽ മറ്റ് എന്റിറ്റികൾക്ക് ലഭ്യമാക്കാം റിസോഴ്സ്കളും സേവനങ്ങളും എന്തായാലും നമ്മൾ അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു അതിനർത്ഥം ക്ലൌഡിനൊപ്പം കഠിനവും മൃദുവായതുമായ റിസോഴ്സ് ലഭ്യമാണ് ബാഹ്യ എന്റിറ്റികൾക്ക് ഇത് എങ്ങനെ ലഭ്യമാക്കാം അത് ഒരു ഉപയോക്താവാകാം ഇത് ഒരു അപ്ലിക്കേഷനായിരിക്കാം ഇത് ഒരു സേവനമായിരിക്കാം കാര്യക്ഷമമായ രീതിയിൽ കാര്യക്ഷമമായ പദം തന്ത്രപരമാണെന്നും എന്നാൽ കാര്യക്ഷമമായ അർത്ഥം അത് ISP യുടെ ലാഭം വർദ്ധിപ്പിക്കുന്നതിൽ കാര്യക്ഷമമായിരിക്കാമെന്നും ഊർജ്ജ ഒപ്റ്റിമൈസേഷനിൽ കാര്യക്ഷമമായിരിക്കാമെന്നും അല്ലെങ്കിൽ SLA കൾ നൽകുന്നതിലും ബഹുമാനിക്കുന്നതിലും മികച്ച സേവനങ്ങൾ നൽകുന്നതിലും കാര്യക്ഷമമാണ് എന്നതാണ് എന്നിരുന്നാലും റിസോഴ്സ് മാനേജ്മെന്റ് ഈ കാര്യങ്ങളിൽ ഒരു പങ്ക് വഹിക്കുന്നു ഇപ്പോൾ നമ്മൾ ഡാറ്റാ സെന്ററിൽ നോക്കുകയാണെങ്കിൽ വൈദ്യുതി ഉപഭോഗം എന്താണ് സൂചിപ്പിക്കുന്നത് അത് ഒരു ISP അല്ലെങ്കിൽ ഇന്റർനെറ്റ് അല്ലെങ്കിൽ ഒരു CSP അല്ലെങ്കിൽ ക്ലൌഡ് സേവന ദാതാവ് അവർക്ക് ഡാറ്റാ സെന്ററുകളുണ്ട് പ്രധാന ദാതാക്കളായ ഐബിഎം ഗൂഗിൾ യാഹൂ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ആമസോൺ തുടങ്ങി നിരവധി നമ്മൾ കണ്ടതുപോലെ അവയ്ക്ക് ലോകമെമ്പാടുമുള്ള ഒരു വലിയ ഡാറ്റാ സെന്ററുകളുണ്ട് ഈ ഡേറ്റാസെന്ററിൽ നിന്ന് ഈ റിസോഴ്സ് ഔട്ട്സോഴ്സ് ചെയ്യുന്ന കാര്യങ്ങളെ അടിസ്ഥാനമാക്കി കൂടുതൽ വ്യക്തമായിരിക്കണം അപ്പോൾ എന്താണ് പവർ ചില റിപ്പോർട്ടുകൾ ഉണ്ട് ഇത് ഏറ്റവും പുതിയ റിപ്പോർട്ട് ആയിരിക്കില്ല ഇത് നമ്മൾ സംസാരിക്കുന്നതിനേക്കാൾ വളരെ ഉയർന്നതാണ് ലോകത്തെ മൊത്തം വൈദ്യുതി ഉപയോഗത്തിന്റെ 0 5 ശതമാനം സെർവറുകൾ ഉപയോഗിച്ചതായി കണക്കാക്കപ്പെടുന്നു ഇത് ഒരു വലിയ തുകയാണ് ഇപ്പോൾ ഇത് സെർവർ മാത്രമല്ല നിങ്ങൾ ഒരു ഡാറ്റാ സെന്റർ നോക്കുകയാണെങ്കിൽ ഡാറ്റാ സെന്റർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ രണ്ട് പ്രധാന ഘടകങ്ങളുണ്ട് ഒന്ന് ഇൻഫ്രാസ്ട്രക്ചർ കണക്കുകൂട്ടുക മറ്റൊന്ന് മൊത്തത്തിലുള്ള പാരിസ്ഥിതിക ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഡാറ്റാ സെന്റർ മറ്റ് ലോജിസ്റ്റിക്സ് നമ്മൾ പറയുന്നത് ഡാറ്റാ സെന്ററിന്റെ പരിസ്ഥിതി അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇവ അടിസ്ഥാനപരമായി നിങ്ങൾക്ക് സെർവറുകൾ പറയുകയോ സംഭരണം പറയുകയോ ഒരുപക്ഷേ അടുത്തുള്ള കാര്യങ്ങൾ പറയുകയോ ചെയ്യുന്നുഇവ നിങ്ങളുടെ പവർ മാനേജുമെന്റ് അല്ലെങ്കിൽ പവർ സപ്ലൈ അല്ലെങ്കിൽ എയർ കണ്ടീഷനിംഗ് ആണ് ഈ ഡാറ്റാ സെന്റർ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട മറ്റ് അനുബന്ധ കാര്യങ്ങൾ എന്നിവയ്ക്കായി പ്രാഥമിക തിരയൽ നൽകുന്നു എനിക്ക് ഒരു ഡിസി ഉണ്ടെങ്കിൽ ഇതിന് രണ്ട് ഘടകങ്ങളുണ്ട് നിങ്ങൾ ഊർജ്ജത്തിന്റെ അളവ് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഒന്ന് ഉണ്ട് നമ്മൾക്ക് ഡിസി ഉണ്ടെങ്കിൽ ഒരു ഘടകം കമ്പ്യൂട്ടിംഗിലേക്കാണ് ഒരു ഘടകം ഡാറ്റാ സെന്ററിന്റെ മൊത്തത്തിലുള്ള പരിസ്ഥിതി നിലനിർത്തുന്നതിനാണ് ഇവിടെ നമ്മൾക്ക് സെർവറുകൾ സ്റ്റോറേജ് നെറ്റ്വർക്ക് എന്നിവയും മറ്റ് കാര്യങ്ങളും ഉണ്ട് അതേസമയം ഇവിടെ പ്രാഥമികമായി നിങ്ങളുടെ പവർ മാനേജുമെന്റ് ഒരുപക്ഷേ യുപിഎസ് പവർ തരം തുടർന്ന് എസിയും മറ്റ് മൊത്തത്തിലുള്ള ലോജിസ്റ്റിക് ക്രമീകരണവും അല്ലെങ്കിൽ മറ്റ് മാർഗങ്ങളും ആണ് വ്യത്യസ്ത തരത്തിലുള്ള സജ്ജീകരണങ്ങൾ കൂടാതെ ഡേറ്റാ സെന്ററുകൾ ഉൾപ്പെടുത്തണം ഇപ്പോൾ ഇവിടെ ഒരു വൈദ്യുതി ആവശ്യകതയുണ്ട് മൊത്തത്തിലുള്ള വൈദ്യുതി ആവശ്യകത ഇവിടെയുണ്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇത് പവർ മാത്രമല്ല പവർ കം സ്പേസ് എന്നിവയുമുണ്ട് ഇവിടെ മൊത്തത്തിലുള്ള ഉപഭോഗം x ആണ് ഇത് x ലേക്കുമാണ് ഇത് സെർവറുകൾ മാത്രമല്ല മറ്റ് തരത്തിലുള്ള ഉപഭോഗവും ആണെങ്കിൽ മറ്റ് ലോജിസ്റ്റിക് യൂണിറ്റുകൾ ഒരുപോലെ ഉയർന്നതാണ് ലോകത്തെ മൊത്തം ഉപയോഗത്തിന്റെ 0 5 ശതമാനം ആണ് ഡാറ്റാ സെന്ററുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ അടിസ്ഥാനപരമായി മറ്റ് കാര്യങ്ങൾക്കായി വ്യവസ്ഥ ചെയ്യുന്നുവെങ്കിൽ അത് അധികാരത്തെക്കാൾ 1 ശതമാനത്തിന് മുകളിലായിരിക്കാം ഇത് ചില സ്ഥലങ്ങളിൽ റിപ്പോർട്ടുചെയ്ത ചില ഡാറ്റയാണ് പക്ഷേ ഇത് വളരെ ഉയർന്നതായിരിക്കാം ഓരോ 5 മുതൽ 6 മണിക്കൂറിലും സെർവറുകളുടെ ഊർജ്ജ ആവശ്യകത വർദ്ധിക്കുന്നുവെന്ന് ചില റിപ്പോർട്ടുകൾ പറയുമ്പോൾ ഈ സെർവറുകളുടെ ആവശ്യങ്ങളും ഇത് പറയുന്നു 6 വർഷം ഒരുപക്ഷേ ഇരട്ടിയാകാം കാർബൺ ഡൈ ഓക്സൈഡ് കാൽപ്പാടുകളുടെ ഒരു വലിയ അളവ് ഉണ്ട് ഈ ഫോസിൽ ഇന്ധനങ്ങൾ കത്തിക്കുന്നത് ഏറ്റവും കുറഞ്ഞ പ്രകടനത്തിനായി ഊർജ്ജ ഉപയോഗം കുറയ്ക്കേണ്ടതുണ്ട് ഈ ഊർജ്ജ ഉപയോഗം കുറഞ്ഞ പ്രഭാവത്തോടെ കുറയ്ക്കുകയോ ഈ പ്രകടനത്തിൽ വിട്ടുവീഴ്ച ചെയ്യുകയോ ചെയ്യുന്നതിനുള്ള നമ്മളുടെ ലക്ഷ്യം എന്താണ് അത് പ്രായോഗികമായി പാടില്ല അല്ലെങ്കിൽ അത് പ്രകടനത്തെ വളരെ കുറഞ്ഞ രീതിയിൽ ബാധിക്കരുത് അതിനാൽ അത് ഒരു ലക്ഷ്യമാണ് നിങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഹരിത ഡാറ്റാ സെന്ററുകൾ എന്ന് നമ്മൾ പറഞ്ഞാൽ മൊത്തത്തിലുള്ള പ്രചോദനം എന്നതാണ് അത് വളരെ കുറച്ച് ഊർജ്ജം എടുക്കും ഉയർന്ന തലത്തിൽ പ്രകടനം നടത്തുകയും ചെയ്യും ഇവിടെ വ്യത്യസ്ത വശങ്ങളുണ്ട് ഒന്ന് ഈ സാമ്പത്തിക വശം പുതിയ ഡാറ്റാ സെന്ററുകൾ മെഗാവാട്ട് സ്കെയിലിൽ പ്രവർത്തിക്കുന്നു പ്രവർത്തിക്കാൻ ദശലക്ഷക്കണക്കിന് ഡോളറോ ദശലക്ഷക്കണക്കിന് പണമോ ആവശ്യമാണ് ചെലവ് കുറയ്ക്കുന്നതിന് വ്യത്യസ്ത തരം പുതിയ വഴികൾ കുറയ്ക്കുന്നതിന് അടുത്തിടെ സ്ഥാപനപരമായ പുതിയ വഴികൾ തേടുന്നു നിരവധി സൌകര്യങ്ങൾ ഉണ്ട് ചില സാഹചര്യങ്ങളിൽ പുതിയ ഊർജ്ജ സ്രോതസ്സ് ഇല്ലാതെ പീക്ക് ഓപ്പറേറ്റിംഗ് സ്റ്റേജ് വിശദീകരിക്കാൻ കഴിയില്ല ഒരു ദാതാവെന്ന നിലയിൽ എനിക്ക് ഫണ്ട് ലഭ്യമാണെങ്കിലും അത് ചെയ്യാൻ എനിക്ക് ഒരു റിസോഴ്സ്കളും ഇല്ല ഐഐടി ഖരഗ്പൂരിൽ നമ്മൾക്ക് ഒരു ഡാറ്റാ സെന്ററുകളുണ്ടെന്നും നമ്മൾ സംസ്ഥാന വൈദ്യുതി ബോർഡിൽ നിന്ന് വൈദ്യുതി എടുക്കുന്നുവെന്നും കരുതുക നമ്മൾ ഒന്നും ഇരട്ടിയാക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും നമ്മൾ പണം നൽകാൻ തയ്യാറാണെന്നും നമ്മൾ പറയുന്നു പക്ഷേ വിതരണം ചെയ്യാൻ സംസ്ഥാന വൈദ്യുതി ബോർഡിന് അത്തരം മിച്ച വൈദ്യുതി ഉണ്ടായിരിക്കില്ല എനിക്ക് പണമുണ്ടോ അതോ കൂടുതൽ സ്ഥലമുണ്ടോ എന്നത് മാത്രമല്ല അത് നൽകാനാകുമോ എന്നതും നോക്കണം തീർച്ചയായും പാരിസ്ഥിതിക വശങ്ങളുണ്ട് പരിസ്ഥിതിയോട് വ്യത്യസ്ത തരത്തിലുള്ള നിയമപരമായ ബാധ്യതകളുണ്ട് ഇപ്പോഴും ഊർജ്ജ സ്രോതസ്സുകളിൽ ഭൂരിഭാഗവും ഫോസിൽ ഇന്ധനങ്ങളാണ് ഓരോ വർഷവും വൈദ്യുത നിലയങ്ങളിൽ നിന്ന് പുറന്തള്ളുന്ന വലിയ അളവിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് അത് പാരിസ്ഥിതിക ആപത്തുകൾ സൃഷ്ടിക്കുന്നു സുസ്ഥിര ഊർജ്ജ സ്രോതസ്സുകൾ അല്ല ഡാറ്റാ സെന്ററുകളുടെ അത്തരം വലിയ ആവശ്യകതകൾ കൈകാര്യം ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഊർജ്ജ ആശ്രിതത്വം കുറയ്ക്കേണ്ടതുണ്ട് ഊർജ്ജ ആശ്രിതത്വം കുറയ്ക്കുന്നതിന് നമ്മൾക്ക് ചില സംവിധാനം ആവശ്യമാണ് ഈ കാര്യത്തിന്റെ വളരെ വിശാലമായ രണ്ട് വശങ്ങൾ ഇതാണ് ഗ്രീൻ കമ്പ്യൂട്ടിംഗിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് നമുക്ക് എന്തുചെയ്യാൻ കഴിയും ക്ലൌഡ് ദാതാക്കൾ എന്ത് നോക്കാൻ ശ്രമിക്കുന്നു ഊർജ്ജ ഉപഭോഗം കുറയ്ക്കുന്നതിനുള്ള ഈ വിപുലമായ ഷെഡ്യൂളിംഗ് പദ്ധതികൾ സാധ്യമാണോ എന്നതാണ് അത് ഊർജ്ജ അവബോധം അല്ലെങ്കിൽ ഒരു എൻഡർ അല്ലെങ്കിൽ താപ അവബോധം ആകാം പവർ അവബോധവും താപ അവബോധവും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആണ് ഓരോ വാട്ടിനുമുള്ള പ്രകടനം മൂറിന്റെ നിയമം പാലിക്കുന്നില്ല നമ്മളുടെ പ്രസിദ്ധമായ മൂറിന്റെ നിയമം പോലെ എന്നാൽ ഓരോ വാട്ടിനും പ്രകടനം മൂറിന്റെ നിയമം പാലിക്കുന്നു എന്ന് തോന്നുന്നില്ല ഡാറ്റാ സെന്റർ രൂപകൽപ്പന ചെയ്യുന്നതിലൂടെ പവർ സെന്റർ കുറയ്ക്കുന്നതിന് നമുക്ക് ഡാറ്റാ സെന്റർ പുനർരൂപകൽപ്പന ചെയ്യാനോ അടിസ്ഥാനപരമായി രൂപകൽപ്പന ചെയ്യാനോ കഴിയുമോ നമുക്ക് ശീതീകരണ സംവിധാനം അല്ലെങ്കിൽ റാക്ക് രൂപകൽപ്പന അല്ലെങ്കിൽ ഡാറ്റ സെന്റർ രൂപകൽപ്പനയിൽ കൂടുതലുള്ള റാക്കുകളുടെയും തരങ്ങളുടെയും സ്ഥാനം എന്നിവ പോലുള്ള ഊർജ്ജം ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും നമ്മൾ കുറച്ച് മിനിറ്റ് മുമ്പ് സംസാരിക്കുമ്പോൾ അതിലൊന്ന് സെർവർ തുടങ്ങിയവയുടെ ഒരു ഭാഗം കണക്കുകൂട്ടുക എന്നതാണ് മറ്റൊന്ന് നിങ്ങൾക്ക് എത്രത്തോളം കാര്യക്ഷമമായി ഡാറ്റാ സെന്റർ ഡിസൈൻ വശങ്ങൾ രൂപകൽപ്പന ചെയ്യാൻ കഴിയുന്നു എന്നതാണ് ഏതെങ്കിലും തരത്തിലുള്ള ഡാറ്റാ സെന്റർ സന്ദർശിക്കുന്നവർ ഉണ്ടെങ്കിൽ കൂളിംഗിന് വ്യത്യസ്തമായ ക്രമീകരണങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാം ഇത് പരമ്പരാഗത തണുപ്പിക്കൽ അല്ല മുഴുവൻ സെർവർ റൂമോ സ്ഥലമോ ആയിരിക്കില് ഇത് പ്രധാന സെർവർ റാക്കുകളിലെ ഡാറ്റയിൽ നിർമ്മിച്ച ഒരു പ്രത്യേക എൻക്ലോസറാണ് മാത്രമല്ല സെർവർ റാക്കുകൾ വളരെ പരിമിത പ്രദേശത്ത് പ്രത്യേകമായി തണുപ്പിക്കുകയും ചെയ്യുന്നതിനാൽ ഈ തണുപ്പിക്കൽ ആവശ്യത്തിന് ആവശ്യമായ ഊർജ്ജം കുറയ്ക്കാൻ കഴിയും വ്യത്യസ്ത തരം ഗവേഷണ ദിശകളും ഉണ്ടാകാം നിങ്ങളിൽ ക്ലൌഡ് കമ്പ്യൂട്ടിംഗിനെക്കുറിച്ച് കുറച്ച് ഗവേഷണം നടത്താൻ താൽപ്പര്യമുള്ളവർ ഉണ്ടാകാം ഒരു പ്രധാന കാര്യമുണ്ട് ഈ റിസോഴ്സ് മാനേജ്മെൻറ് വ്യത്യസ്ത വശങ്ങൾ നോക്കുന്നത് ഗവേഷണം നടത്താനുള്ള ചർച്ചാവിഷയമാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആളുകൾ ഇത് പ്രവർത്തിക്കുന്നു ഈ റിസോഴ്സ് എങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാം എങ്ങനെ ഒപ്റ്റിമൽ റിസോഴ്സ് വിനിയോഗം നടത്താം സേവനങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യാതെ അല്ലെങ്കിൽ ക്ലൌഡിന്റെ പ്രകടനത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ക്ലൌഡ് പരിതസ്ഥിതിയിൽ ഊർജ്ജം എങ്ങനെ സംരക്ഷിക്കാം എന്നതാണ് പ്രധാനം അതിനാൽ ഊർജ്ജ സംരക്ഷണത്തിനായി വിഎം ഷെഡ്യൂൾ ചെയ്തേക്കാം സംരക്ഷണ ഊർജ്ജത്തെക്കുറിച്ച് ശരിയായ വിഎം ഷെഡ്യൂളിംഗ് നടത്താമോ വിഎമ്മുകളുടെ മാനേജുമെന്റും അടിസ്ഥാന സൌകര്യങ്ങൾക്ക് അടിവരയിടുക അനിവാര്യമല്ലാത്ത ജോലികൾക്കായി പ്രവർത്തനക്ഷമത കുറയ്ക്കുക എന്നതാണ് നമ്മൾക്ക് ആ പ്രവർത്തനക്ഷമത കുറയ്ക്കാനാകുമോ അതോ അനിവാര്യമല്ലാത്ത ചുമതലയോ ചെയ്യാമോ എന്നതും പ്രധാനമാണ് ഒരു പ്രത്യേക തരം ധാരാളം റിസോഴ്സ്കൾ ഉള്ള ഒരു വിഎം നിങ്ങൾ എടുക്കുന്നതുപോലെ മറ്റ് നിരവധി പാക്കേജുകൾ തുടങ്ങിയവ പ്രവർത്തിക്കുന്നു പക്ഷേ പ്രായോഗികമായി നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമില്ല നമ്മൾക്ക് പ്രത്യേകതരമായി നിർമ്മിച്ചച്ച വിഎം പ്രത്യേകതരനിർമ്മിത ഒഎസ് ഉണ്ടെങ്കിൽ അത് പ്രവർത്തിപ്പിക്കാൻ കഴിയും ഡാറ്റാ സെന്റർ ഡിസൈൻ ഒപ്റ്റിമൈസ് ചെയ്യുക ഇവ ആണ് ഒന്ന് വിഎം ഷെഡ്യൂൾ ചെയ്യുന്നതിന്റെ ഒരു വശമാണ് മാനേജ്മെന്റിന്റെ ഒരു വശം രൂപകൽപ്പന ഡാറ്റാ സെന്ററുകളുടെ രൂപകൽപ്പന തുടങ്ങിയവയാണ് മറ്റൊരു വശം ഇവ മൂന്ന് വിശാലമായ വശങ്ങളാണ് ഈ വശത്തെക്കുറിച്ച് ഒരു ദ്രുത വീക്ഷണം നടത്താൻ നമ്മൾ ശ്രമിക്കും അതുവഴി നമ്മൾക്ക് ഇത് അനുഭവപ്പെടും അതിനാൽ ഈ മൊത്തത്തിലുള്ള ഗ്രീൻ ക്ലൌഡ് ഫ്രെയിംവർക് നോക്കുകയാണെങ്കിൽ ഒരു വശം വിഎം നിയന്ത്രണങ്ങളിലേക്കാണ് ഒരു വശത്തു വിഎം ഷെഡ്യൂളിംഗ് മാനേജുമെന്റ് മറുവശത്ത് ഡാറ്റാ സെന്റർ ഡിസൈൻ ഇത് അതിന്റെ കമ്പ്യൂട്ട് വശത്താണ് കൂടുതൽ ഇത് ഡാറ്റാ സെന്റർ ഇൻഫ്രാസ്ട്രക്ചർ വശമാണ് ഇവിടെ ഹാർഡ് ഡാറ്റ സെന്റർ ഇൻഫ്രാസ്ട്രക്ചറാണ് നിങ്ങൾ വിഎം നിയന്ത്രണങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരു ഭാഗം ഷെഡ്യൂൾ ചെയ്യുന്നു അത് പവർ അവേർ അല്ലെങ്കിൽ താപ അവബോധം ആകാം കാര്യങ്ങൾ നോക്കുന്നു മറ്റൊന്ന് വിഎം ഇമേജ് ഡിസൈനിംഗ് ആയ വിഎം മാനേജ്മെന്റ് വിഎം ഇമേജ് എന്തായാലും അടിസ്ഥാനപരമായി ആ പാക്കേജുകൾ അല്ലെങ്കിൽ ആവശ്യമുള്ള സേവനങ്ങൾ മാത്രം ഉപയോഗിച്ച് ഈ വിഎം ഇമേജിന്റെ കാര്യക്ഷമമായ ഡിസൈൻ നമ്മൾക്ക് ചെയ്യാൻ കഴിയുമോ എന്നത് അവിടെ അപ്ലോഡുചെയ്യുന്നു മറ്റൊന്ന് നിങ്ങൾക്ക് വിഎം മൈഗ്രേഷനുകൾക്കായി ഉണ്ടെന്ന് കരുതുക പ്രവർത്തിക്കുന്ന ഓരോ ബ്ലേഡ് സെർവറും 8 വിഎമ്മുകൾ പറയുന്നു 16 മുതൽ 8 വരെയാണ് മൊത്തം വിഎമ്മുകളുടെ എണ്ണം ഇപ്പോൾ 16 മുതൽ 8 വരെ അല്ലെങ്കിൽ 10 വിഎം എന്ന് പറയുക 16 മുതൽ 10 വരെ വിഎമ്മുകൾ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ ഉയർന്ന ഭാഗത്ത് 10 ആണെന്ന് പറയുക 16 മുതൽ 5 വരെ 80 വിഎമ്മുകൾ പ്രവർത്തിക്കുന്നുവെന്ന് പറയുന്നു ഇപ്പോൾ 80 വി അടയാളത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ഉണ്ടെങ്കിൽ ലഭ്യമായ മുഴുവൻ വിഎം സെർവറുകളിലും വിതരണം ചെയ്യുന്നത് കാര്യക്ഷമമാണോ അല്ലെങ്കിൽ എനിക്ക് രണ്ട് സെർവറുകളിലേക്ക് വിഎമ്മുകൾ കേന്ദ്രീകരിക്കാൻ കഴിയുമോ എന്ന് 10 അല്ലെങ്കിൽ 20 വിഎമ്മുകൾ സജീവമാണെന്ന് പറയുന്നു ഒന്ന് അതാണ് സെർവർ വിഎം ഒരു സെർവറിൽ പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നത് അത് ഒരു അടിസ്ഥാന ഊർജ്ജം ഉപയോഗിക്കും ഞാൻ ഒരു വിഎം പ്രവർത്തിപ്പിക്കുമ്പോഴെല്ലാം ഇത് വർദ്ധിക്കുന്ന ഊർജ്ജം ഉപയോഗിച്ചേക്കാം അതിന്റെ അടിസ്ഥാനത്തിൽ അത് കാര്യക്ഷമമാണോ എന്ന് വിശദീകരിക്കുന്നതിന് ഒരുതരം ലളിതമായ ഗണിതശാസ്ത്രം ആവശ്യമാണ് ഒരു ഡാറ്റാ സെന്റർ ഡിസൈൻ വശം നോക്കാം ഒന്ന് സെർവർ റാക്ക് ഡിസൈൻ ഒരു പ്രധാന വശമാണ് കൂടാതെ ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് ഭാഗം കാണുന്നില്ലെങ്കിൽ പ്രത്യേകമായി ഉണ്ട് ഡാറ്റാ സെന്റർ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ തരത്തിലുള്ള വസ്തുക്കളുടെ നിർമ്മാണത്തെക്കുറിച്ചുള്ള മറ്റൊരു ഗവേഷണമാണിത് നമ്മൾ കണ്ടീഷനിംഗ് റീസർക്കുലേഷൻ എന്നത് കാര്യങ്ങളുടെ മറ്റൊരു വശമാണ് നിങ്ങൾ ആ മാനേജ്മെൻറ് വശത്തേക്ക് നോക്കുകയാണെങ്കിൽ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയില്ലെങ്കിൽ ഡൈനാമിക്സ് ഷട്ട്ഡൌണിന്റെ മറ്റൊരു വശമുണ്ട് എനിക്ക് അവിടെ ചലനാത്മകമായി ഷട്ട്ഡൌൺ ചെയ്യാൻ കഴിയുമോ ധാരാളം വശങ്ങളുണ്ട് ഇവയെല്ലാം വളരെയധികം ഗവേഷണ സാധ്യതകളാണെന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ പ്രത്യേകിച്ച് കമ്പ്യൂട്ട് ഭാഗത്തുള്ള കാര്യങ്ങളുടെ ഈ ഭാഗം ഉപയോഗിച്ച പ്രോസസറിന്റെ എണ്ണവും വൈദ്യുതി ഉപഭോഗവും തമ്മിൽ രേഖീയമല്ലാത്ത ബന്ധമുണ്ടെന്ന് നിങ്ങൾ കാണുകയാണെങ്കിൽ ഇത് ഒരു സാധാരണ ഉദാഹരണമാണ് ഊർജ്ജ ഉപഭോഗത്തിൽ ഉപയോഗിക്കുന്ന പ്രോസസറിന്റെ എണ്ണം ഒരു രേഖീയ കാര്യമാണെന്ന് പറയാം പ്രോസസറിന്റെ എണ്ണം ഉയർന്നാൽ ഊർജ്ജ ഉപഭോഗം അടിസ്ഥാനപരമായി കുറച്ച് സാച്ചുറേഷൻ ലക്ഷ്യത്തിലേക്ക് പോകുന്നു അത് പൂരിതമല്ലെങ്കിൽ വർദ്ധനവ് രേഖീയമല്ല നമുക്ക് ഇത് ഉപയോഗപ്പെടുത്താൻ കഴിയുമോ എന്ന് നോക്കാം ഊർജ്ജ സംരക്ഷണത്തിനായി ഈ ബന്ധം പ്രയോജനപ്പെടുത്തുന്നതിന് നമ്മൾക്ക് വിഎമ്മുകൾ ഷെഡ്യൂൾ ചെയ്യാൻ കഴിയുമോ എന്നതും അതിനർത്ഥം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ വിഎമ്മുകൾ ഉപയോഗശൂന്യമായ സെർവറിലേക്ക് കേന്ദ്രീകരിക്കാൻ ഞാൻ താൽപ്പര്യപ്പെടുന്നതിനാൽ സെർവറുകളുടെ എണ്ണത്തിൽ പ്രവർത്തിക്കുന്ന വിഎമ്മുകൾ കുറയുന്നു ഫലപ്രദമായി എനിക്ക് ഈ നിഷ്ക്രിയ സെർവറുകളെ ഉപ ഹൈബർനേറ്റ് അല്ലെങ്കിൽ മോഡിലേക്ക് അല്ലെങ്കിൽ കുറഞ്ഞ ഊർജ്ജ ഉപഭോഗ മോഡിലേക്ക് ഉൾപ്പെടുത്താൻ കഴിയും അങ്ങനെ എന്റെ ഡാറ്റാ സെന്ററിന്റെ മൊത്തത്തിലുള്ള ഊർജ്ജ ഉപഭോഗം കുറയുന്നു ഒരു മൾട്ടി കോർ നോഡിൽ ഉണ്ട് നിങ്ങൾക്ക് അടിസ്ഥാനപരമായി പരീക്ഷിച്ച് കാര്യങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് കാണാൻ കഴിയും നൽകിയ നോഡിലെ കോറിന്റെ ട്രാക്ക് സൂക്ഷിക്കുക സാധാരണഗതിയിൽ ഒരു നോഡിൽ ഈ കോഡുകൾ എങ്ങനെ തിരക്കിലാണ് അല്ലെങ്കിൽ എത്ര ലോഡിംഗ് ഉണ്ടെന്ന് നമ്മൾ കാണണം നോഡ് ശേഷിയുമായി വിഎം ആവശ്യകതകൾ പൊരുത്തപ്പെടുത്തുകഉം വേണം അത് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കാര്യം മൈഗ്രേറ്റ് ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കാം വളരെ ലളിതമായ ഒരു ഉദാഹരണം നോക്കാം എനിക്ക് 4 നോഡുകൾ ഉണ്ടെങ്കിൽ അത് നിഷ്ക്രിയാവസ്ഥയിലാണെന്നോ എന്ന് നോക്കാം ലോഡ് ഇല്ലാത്ത അവസ്ഥയിൽ അവർ 105 വാട്ട് ഉപയോഗിക്കുമ്പോഴോ 8 വിഎമ്മുകൾ പൂർണ്ണമായി ലോഡുചെയ്യുമ്പോഴോ 170 വാട്ട് പറയുന്നു എനിക്ക് കുറച്ച് 8 വിഎമ്മുകൾ ഉണ്ടെങ്കിൽ നമ്മൾ 1 നോഡിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ മൊത്തത്തിലുള്ള ഉപഭോഗം 170 പ്ലസ് ആണ് 105 ഗുണം 3 ഈ കേസിലെ മൊത്തത്തിലുള്ള ഉപഭോഗം 4 വാട്ട്സ് ആണ് ഇത് സാധാരണ കാര്യങ്ങൾ നോക്കുന്നു അത് കാര്യമായി വിതരണം ചെയ്യപ്പെടുന്നു ഇത്തരത്തിലുള്ള 2 വിഎം ഉപയോഗിച്ച് അത് 138 ആണെന്ന് നമുക്ക് പറയാം എനിക്ക് 4 ഉണ്ട് ഈ സാഹചര്യത്തിൽ 552 വാട്ട് അങ്ങനെ ചെയ്യുന്നതിലൂടെ അടിസ്ഥാനപരമായി നമുക്ക് കാര്യങ്ങൾ കുറയ്ക്കാൻ കഴിയും അതിൽ ഒരു ചെറിയ പ്രയോജനം ഉണ്ട് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നിന്ന് ഈ ഘട്ടത്തിലേക്ക് എത്താൻ ഞാൻ ഇത് മൈഗ്രേറ്റ് ചെയ്യേണ്ടതുണ്ട് മൈഗ്രേഷനും ചിലവ് ഉണ്ട് മാത്രമല്ല ഇവിടെ നമ്മൾ എല്ലാ വിഎമ്മുകളും ഒരേ വിഭാഗമായി എടുക്കുന്നു വിഎം വ്യത്യസ്ത വിഭാഗങ്ങളാകാം എല്ലാ വിഎമ്മുകളും 1 നോഡിലേക്കോ 2 നോഡുകളിലേക്കോ ഉൾപ്പെടുത്താൻ ഇതിന് കഴിഞ്ഞേക്കില്ല എത്ര ലോഡിംഗ് ഉണ്ടെന്നും എത്ര സൌജന്യ വിഎമ്മുകൾ ഉണ്ടെന്നും പരിശോധിച്ച് നിരീക്ഷിക്കേണ്ടതുണ്ട് അങ്ങനെ അടിസ്ഥാനപരമായി വിഎമ്മുകൾ മൈഗ്രേറ്റ് ചെയ്യാൻ കഴിയും അതിനെ വാട്ടേജിലേക്ക് ഗുണിക്കുന്നത് പോലെ നേരായ പോലെയല്ല ഈ മൈഗ്രേഷന് ഇത് ചെയ്യുന്നതിന് ചിലവുണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ക്ലൌഡ് ഉപയോഗവും ലോഡും നിരീക്ഷിക്കുക ലോഡ് കുറയുമ്പോൾ കൂടുതൽ ഉപയോഗിച്ച നോഡുകളിലേക്ക് തത്സമയം മൈഗ്രേറ്റ് ചെയ്യുക ഉപയോഗിക്കാത്ത നോഡ് ഉപയോഗിക്കാത്ത നോഡ് ഷട്ട്ഡൌൺ ചെയ്യുക അങ്ങനെ അടിസ്ഥാനപരമായി നമ്മൾ എന്താണ് ചെയ്യുന്നത് നമ്മൾ അവ സെർവർ കാര്യങ്ങളിലേക്ക് ഒതുക്കുന്നു അതാണ് തത്സമയ മൈഗ്രേഷൻ ഇപ്പോൾ ഇവയുടെ എണ്ണം നിങ്ങളുടെ ഹൈപ്പർവൈസർ അല്ലെങ്കിൽ വിഎംഎമ്മിന്റെ എണ്ണം ഇത്തരത്തിലുള്ള തത്സമയ മൈഗ്രേഷനെ പിന്തുണയ്ക്കുന്നു ഇത് വാണിജ്യപരമായി ചെലവേറിയതാണെങ്കിലും നിങ്ങൾക്ക് ഒരു തത്സമയ മൈഗ്രേഷൻ നടത്താൻ കഴിയും മാത്രമല്ല ഇതിന് മറ്റ് മാർഗ്ഗങ്ങളും ഉണ്ട് ഒരു സെർവറിന് പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ മറ്റ് സെർവറുകളിലേക്ക് മൈഗ്രേറ്റുചെയ്യുന്നു എന്നിങ്ങനെയുള്ളവയാണ് പക്ഷേ അതാണ് സാധ്യമായത് അതിനാൽ ലോഡ് വർദ്ധിക്കുമ്പോൾ നമ്മൾക്ക് ഒരുതരം വേക്ക്അപ്പ് കോൾ തരം കാര്യങ്ങൾക്കായി ഉണരുക അതിനാൽ ലോഡ് വർദ്ധിക്കുന്നു ഞാൻ അടിസ്ഥാനപരമായി നോഡുകളിലേക്ക് ഒരു വേക്ക്അപ്പ് കോൾ നൽകുന്നു പുതിയ നോഡുകളിലേക്ക് പുതിയ വിഎമ്മുകൾ ഷെഡ്യൂൾ ചെയ്യുക അതിനായുള്ള സാങ്കേതികവിദ്യകൾ ലഭ്യമാണ് നമ്മൾക്ക് കാര്യക്ഷമമായി ഉപയോഗിക്കാൻ കഴിയുമെങ്കി ഫലപ്രദമായി നമുക്ക് ഊർജ്ജ കാര്യക്ഷമത നേടാനാകും ഇത് നോഡ് 2 ആണെങ്കിൽ അത് അവിടെ കുടിയേറുന്നു വിഎം സേവനത്തിലേക്ക് മാറ്റുന്നു തുടർന്ന് നോഡ് 2 നിഷ്ക്രിയമാവുകയും ഹൈബർനേറ്റ് അല്ലെങ്കിൽ ഓഫ്ലൈൻ മോഡിലേക്ക് മാറ്റുകയും ചെയ്യുന്നു ഞാൻ ഒരു നോഡിൽ 1 ഫലപ്രദമായി പ്രവർത്തിക്കുന്നു ഇത്തരത്തിലുള്ള ഒരു മൈഗ്രേഷന് ചിലവ് ഉണ്ടെങ്കിലും മൊത്തത്തിൽ ഞാൻ കാര്യക്ഷമത കൈവരിക്കുകയാണെങ്കിലോ ഊർജ്ജ ഉപഭോഗം കണക്കിലെടുക്കുകയാണെങ്കിലോ അത് നോക്കാനുള്ള ഒരു നല്ല ഓപ്ഷനാണ് ആ മാനേജ്മെൻറ് നമ്മൾ കണ്ട മറ്റൊരു വശങ്ങൾ ആണ് എന്തുകൊണ്ടാണത് എനിക്ക് വിഎം കുറയ്ക്കാൻ കഴിയുമോ വിഎം മെഷീനുകൾ ചിലപ്പോൾ വളരെയധികം ലോഡുചെയ്യുന്നു ധാരാളം അനാവശ്യ പാക്കേജുകൾ ആവശ്യമില്ലാത്ത സേവനങ്ങൾ എന്നിവയുണ്ട് വിഎം ഒരു അടിസ്ഥാന കോൺഫിഗറേഷനുമായി വരുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് എടുക്കും അവിടെ ഉപയോക്താവ് ഉപയോഗപ്പെടുത്താനിടയില്ല നമ്മളുടെ മൾട്ടി ആപ്ലിക്കേഷൻ ആണ് കേസുകളുടെ എണ്ണത്തിൽ സേവനത്തെ അടിസ്ഥാനമാക്കിയുള്ളതല്ല ക്ലൌഡ് ഒരു സേവനാധിഷ്ഠിത വാസ്തുവിദ്യയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് നമ്മൾക്ക് സേവന ദിശാബോധം ഉണ്ടായിരിക്കണം സേവനാധിഷ്ഠിത ശാസ്ത്രത്തിനോ സേവനങ്ങൾക്കോ ഭാരം കുറഞ്ഞ ലിനക്സ് ആരംഭിക്കുന്ന സാധാരണ ഉദാഹരണമാണ് സാധാരണയായി 9 04ആണ് ആവശ്യമില്ലാത്ത എല്ലാ പാക്കേജുകളും നീക്കംചെയ്യുക എനിക്ക് എക്സ് 11 അല്ലെങ്കിൽ വിൻഡോസ് മാനേജർ തുടങ്ങിയവ ആവശ്യമില്ലെങ്കിൽ പ്രൊഫൈലിംഗ് യൂട്ടിലിറ്റി ബൂട്ട് ഫയലുകൾ ലഭിക്കും പിന്തുടരേണ്ട ഘട്ടങ്ങൾ എനിക്കുണ്ടെങ്കിൽ എനിക്ക് അത് ചെയ്യാൻ കഴിയും ഒരു പ്രിയോറി ചെയ്യുക അതിനാൽ 3 ഡി ഗ്രാഫിക്സ് ഇല്ല ശബ്ദമില്ല എനിക്ക് ഇഷ്ടാനുസൃതമാക്കിയ ലിനക്സ് കേർണൽ ലഭിക്കും അത് പ്രാഥമികമായി കാര്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു ഉപഭോക്തൃ ആവശ്യകതയെ അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ സേവനങ്ങളെ അടിസ്ഥാനമാക്കി അടിസ്ഥാനപരമായി നമ്മൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒപ്റ്റിമൈസ് ചെയ്യാൻ കഴിയും നമുക്ക് കഴിയുന്നതുപോലെ ചില സ്നാപ്പ് പാരാമീറ്ററുകൾ സംരക്ഷിക്കുന്ന വ്യത്യസ്ത ഊർജ്ജമുണ്ട് ബൂട്ട് സമയം 38 ൽ നിന്ന് 8 സെക്കൻഡായി കുറച്ചാൽ നമുക്ക് ഊർജ്ജo ലാഭിക്കാൻ കഴിയും മണിക്കൂറിൽ 100 ഇമേജുകൾ ഉള്ള ഒരു ചെറിയ ക്ലൌഡ്മാണെങ്കിലും വളരെയധികം ഊർജ്ജ ലാഭം ഉണ്ടാകും ഓരോ തവണയും 1000 ചിത്രങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു നിർമ്മാണ ക്ലൌഡിൽ മറ്റ് രീതിയിൽ ധാരാളം ഊർജ്ജം ലാഭിക്കുന്നു ഒരു ഇമേജ് വലുപ്പം 4 ജിബി മുതൽ 600 പ്ലസ് എംബി വരെ ലൈഫ് പെർഫോമൻസ് കുറയ്ക്കുന്നു ലൈഫ് മൈഗ്രേഷനും ചിലവ് വരുന്നതാണെന്നും നമ്മൾക്ക് കൂടുതൽ നന്നായി ചെയ്യാനാകുമെന്നും നമ്മൾ പറയുന്നു ഇവയെല്ലാം ഊർജ്ജത്തെ കാര്യക്ഷമമാക്കുന്നു അല്ലെങ്കിൽ യഥാർത്ഥ പ്രകടനത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ശരിയായ റിസോഴ്സ് മാനേജർ ഉണ്ട് നമ്മൾ സംഗ്രഹിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും ഉയർന്നുവരുന്ന വിഷയമാണ് സാധ്യമാകുന്നിടത്തെല്ലാം ഊർജ്ജം സംരക്ഷിക്കേണ്ടതുണ്ട് അതിലൊന്ന് ഗ്രീൻ ക്ലൌഡ് ഫ്രെയിംവർക്ക് വിഎമ്മുകളുടെ പവർ അവേർ ഷെഡ്യൂളിംഗ് ആണ് നൂതന വിഎം ഇൻഫ്രാസ്ട്രക്ചർ മാനേജുമെന്റ് പ്രത്യേക വിഎം ഇമേജുകൾ അല്ലെങ്കിൽ ഇച്ഛാനുസൃതമാക്കിയ വിഎം ഇമേജുകൾ ആണ് ചെറിയ ഊർജ്ജ സമ്പാദ്യം വലിയ സ്വാധീനം ചെലുത്തുന്നു ഇത് നോഡ് തിരിച്ചുള്ള ചെറിയ വിഎം ആണ് പക്ഷേ മുഴുവൻ കാര്യങ്ങളും പരിഗണിക്കുന്നത് ഒരു വലിയ സ്വാധീനമാണ് വ്യത്യസ്ത രീതികൾ ഒന്നിച്ച് സംയോജിപ്പിക്കുന്നത് പ്രത്യേകമായി നടപ്പിലാക്കുന്നതിനേക്കാൾ വലിയ സ്വാധീനം ചെലുത്തും അത് കൂട്ടായി അല്ലെങ്കിൽ സഹകരണപരമായി നോക്കുക മാത്രമല്ല ചെയ്യുന്നത് ഊർജ്ജവും താപനിലയും കുറയ്ക്കുന്നതിന് പവർ അവേർ തെർമൽ അവേർ ഷെഡ്യൂളിംഗ് എന്നിവയുടെ സംയോജിത ആശയങ്ങളും ഗവേഷണ താൽപ്പര്യങ്ങളും കാര്യങ്ങളും ഉണ്ട് സംയോജിത സെർവർ റാക്ക് കൂളിംഗ് തന്ത്രങ്ങൾ എന്നിവ ഈ ദിവസങ്ങളിൽ നമ്മളുടെ സെർവർ റാക്കുകൾ സംയോജിത കൂളിംഗ് പവറുമായി വരുന്നു കൂടുതൽ മെച്ചപ്പെട്ട വിഎം ഇമേജ് കുറയ്ക്കുകയും ആ ഉപഭോക്തൃ ആവശ്യങ്ങളും കാര്യങ്ങളും നോക്കുകയും ഉപഭോക്തൃ പ്രൊഫൈലിംഗ് നോക്കുകയും ചെയ്യുന്നു കൂടുതൽ കാര്യക്ഷമമായി അടുത്ത തലമുറ ക്ലൌഡ് കമ്പ്യൂട്ടിംഗ് സിസ്റ്റം രൂപകൽപ്പന ചെയ്യുന്നു ഊർജ്ജം താപം സേവന തരം എന്നിവ കണക്കിലെടുക്കുമ്പോൾ ഇതുപയോഗിച്ച് നമുക്ക് ഇന്ന് ഉപസംഹരിക്കാം നമ്മൾ മനസ്സിലാക്കുന്നതുപോലെ റിസോഴ്സ് മാനേജ്മെന്റിന്റെ ഈ പ്രത്യേക രീതിയിൽ ഗവേഷണം നടത്താനും പഠനങ്ങൾക്കും ധാരാളം സാധ്യതയുണ്ട്